കഴിഞ്ഞ ആഴ്ചയിലെ സെഷൻ നിങ്ങൾ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് അസൈൻമെൻറ് പൂർത്തിയാക്കാൻ ഇതുകൊണ്ട് ഉപകാരപ്പെടും നമ്മൾ ഇപ്പോൾ Financial statements പറ്റി ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് നെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ ഓരോ ഘടകങ്ങളും ചർച്ചചെയ്യുന്നു ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് 3 പ്രധാന ഘടകങ്ങളെ കാണാം അതായത് Assets Liabilities Owner's fund അതിൽ തന്നെ Assets liabilities പറ്റി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾ Owners fund ചർച്ച ചെയ്യും തുടർന്ന് ബാലൻസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ശേഷം Profit loss ac ചർച്ച ചെയ്യും Right now let us briefly revise asset and liabilities ഇപ്പോൾ നമുക്ക് Assets liabilities പറ്റി പെട്ടെന്ന് ഓർത്തെടുക്കാം ഈ കാണുന്നവയാണ് Assets നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് കമ്പനിയുടെ സ്വത്ത് അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു റിസോഴ്സ് ആണ് മാത്രമല്ല ഭാവിയിൽ Cash Flow നൽകാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് അതിനാൽ ഞാൻ അവ വീണ്ടും ആവർത്തിക്കുന്നില്ല Assets ൽ പ്രധാനമായി രണ്ടുതരമുണ്ട് Non current Current Non current ൽ തന്നെ Fixed Asset Investment എന്ന രണ്ട് ഇനം ഉണ്ട് Fixed assets എന്താണ് ഇതൊരു ഇൻഫ്രാസ്ട്രക്ച്ചർ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്വത്താണ് ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തേജകമായി പ്രവർത്തിക്കുന്നു രണ്ട് തരങ്ങളുണ്ട് Tangible fixed assets Intangible fixed assets Tangible ന് ഉദാഹരണങ്ങളായി Land building plant machinery അതുപോലെ മറ്റു വൈവിധ്യമാർന്ന വസ്തുക്കൾ അവ ഒരുപാട് കാലം നിലനിൽക്കുന്ന വ ആണെങ്കിൽ ഇതെല്ലാം Tangible ആണ് Intangible എന്നത് നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് അത് സ്പർശിക്കാൻ കഴിയില്ല പക്ഷേ അവയ്ക്ക് ഒരു മൂല്യമുണ്ട് അവ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവയ്ക്ക് ഉദാഹരണമായി softwares apps patents എന്നിവ ഉദാഹരണങ്ങളായി എടുക്കാം അടുത്തതായി current assets Current assets ന് 1 വർഷത്തിൽ താഴെയാണു ആയുസ്സ് ഇതിൽ തന്നെ രണ്ട് തരങ്ങൾ ഉണ്ട് Monetary Non monetary Monetary ഉദാഹരണങ്ങളായി debtors bank balance എന്നിവയാണ് Non monetary ഇതിൽ ഉദാഹരണങ്ങളായി inventory or stock raw material finished goods അതുപോലെ work in progress stock ഇതുമൊരു non monetary asset ആണ് പിന്നീട് നമ്മൾ Liabilities ചർച്ച ചെയ്തു ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന ബാധ്യത ആണ് Company ലോ enterprise ലോ നിലനിൽക്കുന്ന കുടിശ്ശികയാണിത് ഇത് നിങ്ങൾക്ക് യുക്തിസഹജമായി കണക്കാക്കാം അവ ഭാവിയിൽ cash outflow ഉണ്ടാക്കാം liabilities തരങ്ങൾ ഏതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് രണ്ടായി തരം തിരിക്കാം long term liabilities short term liabilities എന്താണ് long term ബാങ്ക് ലോൺ അതുപോലെ loan from NBFC അല്ലെങ്കിൽ Deferred tax obligations എന്നിവയാണ് ഇതെല്ലാം long term liabilities ആണ് മറ്റൊന്ന് current അഥവാ short term liability ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് Bank overdraft payables അഥവാ creditors outstanding expenses എന്നിവയാണ് Outstanding expenses ഉദാഹരണങ്ങൾ പറയാമോ കഴിഞ്ഞ തവണ നമ്മൾ ശമ്പളത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഇതല്ലാതെ മറ്റൊരു ഉദാഹരണം പറയാമോ Stationery വാങ്ങിയതായി കരുതുക എന്നാൽ അതിൻറെ പണം ഉടനടി നൽകിയിട്ടില്ല ഇതിൻറെ പണം നമ്മൾ പിന്നീട് നൽകുന്നതായിരിക്കും അതുവരേയ്ക്കും ഇതു Outstanding expense ആണ് നിങ്ങൾ സേവനമോ ഉൽപ്പന്നമോ വാങ്ങിച്ച തീയതിയിൽ പണം അടച്ചില്ലെങ്കിൽ അതുവരേയ്ക്കും Outstanding expense ആണ് അടുത്തതായി Provisions ഇതൊരു പ്രത്യേക തരം liability ആണ് തുക കൃത്യതയോടെ അറിയില്ല എന്നാൽ ഒരു liability ഉണ്ടെന്ന് അറിയാം നാല് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നാൽ അതല്ലാതെ മറ്റൊരു ഉദാഹരണം പറയാമോ നമ്മുടെ ഫാക്ടറിയിലോ ഓഫീസിലോ ചില അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ടെന്ന് കരുതുക അറ്റകുറ്റപ്പണികൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയില്ല റിപ്പയർ ബിൽ ഇതുവരെഅയച്ചിട്ടില്ല അതിനാൽ നിരക്കുകൾ നമ്മൾക്ക് അറിയില്ല പക്ഷേ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ടെന്ന് അറിയാം മാർച്ച് 31ന് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് തുടർന്ന് നമ്മൾ അറ്റകുറ്റപ്പണികൾക്കായി ഒരു Provision ഉണ്ടാക്കും മറ്റൊരു ഉദാഹരണം ചില വസ്തുക്കൾ ഗ്യാരണ്ടി ക്ലോസ് ഓടുകൂടി വിറ്റു വസ്തുക്കൾക്ക് തകരാറുണ്ടായാൽ സൌജന്യമായി ഒരു വർഷത്തിനുള്ളിൽ service ചെയ്യാം എന്നുള്ളതാണ് വ്യവസ്ഥ ഒരു വർഷത്തേക്ക് ഒരു ബാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ Actual തുക നമുക്ക് അറിയില്ല നമ്മൾക്ക് കൂടുതലോ കുറവോ നൽകേണ്ടിവരാം മുൻകാല റെക്കോർഡിന് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി പണി മാറ്റി സ്ഥാപിക്കൽ എന്നിവയുടെ ചെലവ് അടിസ്ഥാനമാക്കി നമ്മൾ estimate തുക കണ്ടെത്തും അതിൻറെ ഭാഗമായി 2 അല്ലെങ്കിൽ 3 provision for repair മാറ്റിവയ്ക്കും മറ്റൊരുദാഹരണം പറയാമോ ഒരുദാഹരണമായി ഗ്രാറ്റുവിറ്റി ഒരു ജീവനക്കാരൻ വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ മരണം അടയുമ്പോൾ നമ്മൾ ജീവനക്കാർക്ക് ഗ്രാറ്റിവിറ്റി നൽകണമെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു സേവനത്തിൻറെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഗ്രാറ്റിവിറ്റി കണക്കാക്കുന്നത് ആ സേവനം ചിലപ്പോൾ 5years 6 years 10 years 40 years എന്നിങ്ങനെ ആകാം ആ ജീവനക്കാരന്റെ കാലാവധിയും കമ്പനിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഉള്ള ശമ്പളവും അടിസ്ഥാനമാക്കിയാണ് ആണ് ഗ്രാറ്റിവിറ്റി നിർണയിക്കുന്നത് ബാലൻസ് ഷീറ്റ് ദിവസം നൽകേണ്ട ഗ്രാറ്റിവിറ്റി തുകയെക്കുറിച്ച് നമ്മൾക്ക് ഉറപ്പില്ല പക്ഷേ ബാധ്യത നിലവിലുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നാം provision for gratuity കണക്കാക്കും കൂടാതെ നാലു ഉദാഹരണങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് പ്രൊവിഷൻ എന്ന ആശയം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തതായി ഒരു പ്രത്യേകതരം ബാധ്യത കൂടിയുണ്ട് അവിടെ നമ്മൾക്ക് തുക അറിയില്ല അല്ലെങ്കിൽ Asset ൻറെ നിലനിൽപ്പ് അറിയില്ല ബാധ്യത സൃഷ്ടിക്കപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല തുക അറിയില്ല അതിൻറെ existence ഉറപ്പില്ല ഇത്തരം ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ബാലൻസ് ഷീറ്റിൽ അത്തരമൊരു ബാധ്യത കാണിക്കേണ്ടത് ആവശ്യമാണോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ആവശ്യമാണ് എന്നതാണ് ഉത്തരം ഒരു ബാധ്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലുംബാധ്യതയെക്കുറിച്ച് ഒരു നിശ്ചയവും ഇല്ലെങ്കിലും ബാധ്യത വരുത്താൻ ചെറിയ ഒരു അവസരം ഉണ്ടാക്കാം അത്തരം സാഹചര്യങ്ങളിൽ ആ ബാധ്യതയെ കാണിക്കേണ്ടതുണ്ട് Contingent liability എന്നാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ Contingent liability ഈ ബാധ്യത ഉണ്ടാകാനിടയുള്ള ഒരു ബാധ്യതയാണ് Liability പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇതൊരു മുൻകാല സംഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ബാധ്യതയാണെന്ന് ഇപ്പോൾ Contingent liability സാധ്യമായ ഒരു ബാധ്യതയാണ് ഇതിൻറെ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തതിനാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ കഴിയുകയില്ല എന്നാൽ ഇതിനെ ഒരു അടിക്കുറിപ്പായി കാണിക്കാം ബാലൻസ് ഷീറ്റിന് താഴെ എല്ലാ Contingent liabilities ൻറെ കുറിപ്പ് നൽകണം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ഉദാഹരണങ്ങളെ കുറിച്ച് പറയാമോ മുൻകാല സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇത് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുള്ളവയാണ് ഇത്തരം ചിലവുകൾ അനിശ്ചിതത്വത്തിലാണ് കമ്പനിക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല അത്തരം ഒരു ഉദാഹരണം പറയാമോ കോടതി കേസുകൾ ആണ് ഏറ്റവും മികച്ച ഉദാഹരണം നമ്മൾ നൽകിയ സേവനം ഉപഭോക്താക്കളിൽ ഒരാൾക്ക് തൃപ്തികരമായില്ല എന്ന് കരുതുക അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം ഉൽപ്പന്നം ഉപഭോക്താവിന് വിറ്റു എന്ന് വിചാരിക്കുക ഉപഭോക്താവ് നമുക്കെതിരെ ഉപഭോക്ത്യ കോടതിയിൽ പരാതി ഫയൽ ചെയ്യുന്നു അല്ലെങ്കിൽ കോടതിയിൽ നമ്മൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുന്നു ഈ ഉൽപ്പന്നം മോശമാണെന്നും ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെടും ഇതിൽ രണ്ട് സാധ്യതകൾ ഉണ്ട് ഒന്നാമത്തെ സാധ്യത നമ്മൾ തെറ്റുണ്ടെന്ന് അംഗീകരിക്കുകയും നഷ്ടപരിഹാരം നൽകാൻ തയാറാവുകയും ചെയ്യും എന്നാൽ തുക ഇതുവരെ അറിയില്ല നമ്മൾ ഉപഭോക്താവും ആയി ഒരു ചർച്ചയിൽ ഏർപ്പെടുന്നു അദ്ദേഹം ആവശ്യപ്പെടുന്നത് 10 ലക്ഷം രൂപയാണ് എന്നാൽ അത് കൂടുതൽ ആണെന്നും ഒരുലക്ഷം രൂപ നൽകാമെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു തുടർ ചർച്ചകൾ നടക്കുന്നു അവസാനം ഒരു ധാരണയിൽ എത്തുന്നു അത്തരം സാഹചര്യത്തിൽ നമ്മൾ Provision ഉണ്ടാക്കുന്നു കാരണം നമ്മൾ ബാധ്യത അംഗീകരിച്ചിരുന്നു ഇപ്പോൾ അവിടെ ബാധ്യതയുണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ ഇപ്പോഴും തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാധ്യത നമ്മൾ നിരസിച്ചു എന്ന് വിചാരിക്കുക അതായത് നാശനഷ്ടമോ നഷ്ടപരിഹാരമെന്നോ ഒന്നും നൽകേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ ഉൽപന്നം ഗുണനിലവാരം ഉള്ളതാണ് എന്നാൽ ഉപഭോക്താവ് അത് അംഗീകരിച്ചു തരുന്നില്ല ഉപഭോക്താവ് കോടതിയിൽ കേസ് നൽകി കോടതി വിധി എന്താകുമെന്ന് എന്ന് നമുക്ക് പറയാനാകില്ല കോടതി വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ഒന്നുംതന്നെ നൽകേണ്ടതില്ല അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടിവരും ഇതൊരു contingent liabilityയുടെ ഉത്തമ ഉദാഹരണമാണ് മറ്റൊരുദാഹരണത്തെപ്പറ്റി ചിന്തിക്കൂ ഒരു തീപിടുത്തം ഉണ്ടായതായി വിചാരിക്കുക തീപിടുത്തം കാരണം നമ്മുടേതല്ലാത്ത ചില മുദ്രപതിപ്പിച്ച ബോക്സുകളിൽ ഉള്ള വസ്തുക്കൾ നാശം ആയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ ആകില്ല ഉപഭോക്താവ് തുറന്നു നോക്കുന്നത് വരേയ്ക്കും നാശനഷ്ടത്തെ പറ്റി നമുക്ക് ഉറപ്പില്ല നാശം സംഭവിച്ചു എങ്കിൽ തീർച്ചയായും നമ്മൾ നഷ്ടപരിഹാരം നൽകേണ്ടിവരും ഇതും ഒരു Contingent liability ഉദാഹരണമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇപ്പോൾ ഇതൊരു അപൂർവ കേസാണ് എന്നിരുന്നാലും വൻകിടകമ്പനികൾ ലക്ഷക്കണക്കിന് ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ അത്തരമൊരു സാഹചര്യത്തെ തള്ളിക്കളയാനാവില്ല ഇതെല്ലാം തന്നെ അവർ നോട്ട്സ് ആയി കമ്പനി ആക്ട് പ്രകാരം കാണിക്കേണ്ടതാണ് നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ശരിയായി വായിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കമ്പനി തിരഞ്ഞെടുത്ത് ആ കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് വായിക്കാൻ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് താഴെ നോട്സ് എന്നുകാണാം ആ Noteഇൽ Contingent liability എന്നൊരു ഇനം കാണാം അതിൽ ഉപഭോക്താക്കൾ നൽകിയ case ഇൻറെ മുഴുവൻ വിശദാംശങ്ങൾ ഉണ്ടാകുംകമ്പനിക്ക് ലഭിച്ച നിയമോപദേശം എന്നിവയെപ്പറ്റിയെല്ലാം അതിൽ കാണാം ഇപ്പോൾ ഈ ബാധ്യത കമ്പനി സ്വീകരിച്ചു എന്ന് കരുതുക അപ്പോൾ അതൊരു Provision ആയി മാറും അത് കോടതി വിധി നമുക്കെതിരെ ആകുമ്പോൾ ആണ് അതുവരേയ്ക്കും ഇത് ബാലൻസ് ഷീറ്റിൽ Contingent liability ആയി തന്നെ തുടരും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ബാലൻസ് ഷീറ്റിലെ liability വിഭാഗത്തിലെ അവസാന ഇനം ആയിരുന്നു അത് നമുക്കിനി Owners fund എന്ന വിഭാഗത്തിലേക്ക് പോകാം നേരത്തെ ഫോർമാറ്റ് നോക്കുമ്പോൾ ഈ Item ത്തെ നമ്മൾ കണ്ടിരുന്നു ഇത് സ്ഥാപനത്തിൻറെ residual interest ആണ് കമ്പനി ഉടമസ്ഥർക്ക് നൽകേണ്ട തുകയാണിത് എന്തുകൊണ്ടാണ് ഇതിനെ ശേഷിപ്പുകൾ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ Assets ഉപയോഗിച്ച് ആദ്യം ബാഹ്യ ബാധ്യതകൾ നൽകണം അതായത് Current non current liabilities അടച്ചതിനു ശേഷം അവശേഷിക്കുന്ന തുക മാത്രമാണ് ഉടമസ്ഥർക്ക് ലഭിക്കുന്നത് അതിനാലാണ് ഇതിനെ Residual interest എന്നു വിളിക്കുന്നത് നേരത്തെ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ അതിൽ രണ്ട് ഘടകങ്ങളുണ്ട് മൂലധനം അതായത് ഉടമസ്ഥർ നിക്ഷേപിച്ച പണം എൻറെ പ്രൈസ് ഉടമയ്ക്ക് ലാഭത്തിൽ നിന്നും നൽകുന്ന പണം ആ CapitalReserve ആണ് ഓണേഴ്സ് ഫണ്ട് എന്നു പറയുന്നത് ഇതിനെ Total assets All External liablities Owner's fund എന്നു പറയാം ഓണേഴ്സ് ഫണ്ടിന് മറ്റു രണ്ടു പേരുകൾ ഉണ്ട് ഒന്ന് Networth എന്നറിയപ്പെടും അതായത് ഒരു കമ്പനിയുടെ Networth 100 കോടി എന്നുകാണാം മറ്റൊരു പേര് Equity ഒരു കമ്പനിയുടെ equity 500 കോടി എന്നെല്ലാം കാണാം ഇത് തന്ത്രപരമായ വാക്കാണെന്ന് ഓർക്കുക കാരണം ഇക്വിറ്റി ക്യാപിറ്റൽ എന്നത് ഒരു തരം മൂലധനമാണ് എന്നാൽ ഇക്വിറ്റി എന്നത് ഉടമസ്ഥരുടെ പണവും Reserve വും കൂടിച്ചേർന്നതാണ് അമേരിക്കൻ പാദാവലിയിൽ അവർ ഇതിനെ ഇക്വിറ്റി എന്ന് വിളിക്കുന്നു UK അവർ ഇതിനെ Networth എന്ന് വിളിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ ഇതിനെ Owners fund എന്നു പറയുന്നു ഇവ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉടമകൾ അതിനാൽ ഇതിനെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നറിയപ്പെടുന്നു അതിനാൽ നിങ്ങളുടെ കൈയിലുള്ള ബാലൻസ് ഷീറ്റ് ഇതിനെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഓണർ ഫണ്ട് എന്നു പറഞ്ഞു കാണിച്ചിട്ട് ഉണ്ടാകും ഇപ്പോൾ നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ടാകാം നിങ്ങൾ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാം നിങ്ങൾ മ്യൂച്ചൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാദിവസവും NAV പ്രഖ്യാപിക്കും NAV നിങ്ങൾ Google ചെയ്താൽ കാണാനാകും SEBI ടെ നിർദ്ദേശപ്രകാരം എല്ലാ ദിവസവും NAV പ്രഖ്യാപിക്കണം ഈ NAV എന്നാൽ ആ പ്രത്യേക സ്കീം പ്രകാരം ഉള്ള ഉടമസ്ഥരുടെ ഫണ്ടാണ് NAV യുടെ പൂർണ്ണരൂപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ Net Asset Value എന്നാണ് ഇവിടെ Net asset എന്നത് മൊത്തം Asset നിന്നും മൊത്തം Liability കുറച്ച്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ മൊത്തം ഉടമസ്ഥരുടെ ഫണ്ടിനെ യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ആണ് NAV കിട്ടുന്നത് അതുകൊണ്ടുതന്നെ NAV എന്നാൽ ഉടമസ്ഥരുടെ ഫണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് മൂന്നു ഘടകങ്ങളിലേക്ക് പോകാം പോകാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ബാലൻസ് ഷീറ്റ് എല്ലായിപ്പോഴും തുല്യം ആവേണ്ടതാണ് Assets Liabilities Owners Fund ഉടമകളുടെ ഫണ്ട് എന്നാൽ Capital retained earnings ആണെന്ന് അറിയാലോ ഇതു കണ്ടെത്താൻ രണ്ട് വഴികളുണ്ട് Owners Fund Assets - Liabilities Owners Fund Capital Retained Earnings ഇപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് സമവാക്യത്തിലേക്ക് പോകാം A തുല്യമാണ് LO A L O Where A Assets L Liability and O owner's fund ഇപ്പോൾ നിങ്ങൾക്ക് ബാലൻസ്ഷീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിനായി 5 ലളിതമായ ഇടപാടുകൾ എടുക്കാം ഈ ഇടപാടുകളിൽ ALO എന്നിവയുടെ സ്വാധീനം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു കമ്പനി പുതിയതായി രൂപപ്പെട്ടതാണെന്നും അത് ഷെയറുകൾ പുറപ്പെടുവിക്കുന്നു എന്നും പറയാം ALO എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുമോ ഇഷ്യൂ ഷെയർ എന്നാൽ നിക്ഷേപകർ കമ്പനിയെ സമീപിക്കുകയും അവർ പണം നൽകി ഷെയർ വാങ്ങുകയും ചെയ്യുന്നു ഇപ്പോൾ ALO എന്തു സംഭവിച്ചു എന്ന് പറയാമോ Asset കൂടുകയും Liability മാറ്റമില്ല Owners fund ഉയരുകയും ചെയ്യുന്നു അപ്പോൾ AO എന്നിവ ഉയർന്നു അതിനർത്ഥം ബാങ്ക് ബാലൻസ് വർധിച്ചു അതുപോലെതന്നെ ഇക്വിറ്റി ഷെയർ ബാലൻസും ഉയർന്നു ഇപ്പോൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾ ആയിരുന്നവർ journal entries പഠിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് journal entries ആണ് കാണിക്കാൻ പോകുന്നത് ഇത് നോൺ കോമേഴ്സ് വിദ്യാർഥികൾക്ക് പ്രയോജനപ്പെടും ഓരോ ഇടപാടിലും A L O മാറ്റങ്ങൾ സംഭവിക്കും തുല്യമായി debit credit സ്വാധീനിക്കും നമ്മൾ ഇത് വളരെ ലളിതമായി മനസ്സിൽ ആക്കാൻ വേണ്ടി 5 എളുപ്പമായ ഇടപാടുകൾ ആണ് എടുക്കുന്നത് പക്ഷേ ഇവ വളരെ അടിസ്ഥാനപരമായ ഇടപാടുകളാണ് ഒരു കമ്പനിയുടെ ഇടപാടുകളിൽ ഭൂരിഭാഗവും ഈ ഇടപാടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മൾ ALO എന്നിവയുടെ സ്വാധീനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ആദ്യമായി കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു കമ്പനി രൂപംകൊണ്ടു നിക്ഷേപകർ പണം നിക്ഷേപിച്ച് അവർക്ക് ഓഹരികൾ ലഭിച്ചു അടുത്തതായി കമ്പനി ബാങ്കിൽ നിന്നും കടം വാങ്ങുന്നു അപ്പോൾ ALO സംഭവിക്കുന്നതെന്ത് നിങ്ങളിൽ ഭൂരിഭാഗവും ഇത് ശരിയായിത്തന്നെ ചിന്തിച്ചു എന്ന് ഞാൻ കരുതുന്നു കാരണം കമ്പനി ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് ലോൺ നൽകുകയും അതുവഴി ബാങ്ക് ബാലൻസ് ഉയരുകയും അതുവഴി പുതിയ ബാധ്യത ഉണ്ടാവുകയും ചെയ്തു അതിനാൽ ബാങ്കിൽ പ്ലസും ബാങ്ക് വായ്പയിൽ പ്ലസും ഉണ്ടായി അതിനാൽ A L അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ ലോൺ ലഭിച്ചാൽ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും ബാങ്ക് ലോൺ എന്ന ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു അതിനാലാണ് ബാലൻസ് ഷീറ്റ് തുല്യമായി ഇരിക്കുന്നത് രണ്ടാമത്തേതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്കിനി മൂന്നാമത്തെ എൻട്രിയിലേക്ക് പോകാം ആദ്യം 3a പണം നൽകി വസ്തുക്കൾ വാങ്ങി കമ്പനിക്ക് ഷെയർ വഴിയും ലോണ് വഴിയും ഒരുപാട് പണം ലഭിച്ചു അതിനാൽ ഈ പണമുപയോഗിച്ച് മെഷിനറി അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതെ എങ്ങനെയാണ് ALO പ്രതിഫലിക്കുന്നത് കമ്പനി പണം നൽകുന്നു അതിനാൽ ബാങ്ക് ബാലൻസ് കുറയുന്നു പക്ഷേ അവർക്കു യന്ത്രങ്ങൾ ലഭിക്കുന്നു അപ്പോൾ A അതുപോലെ A സംഭവിക്കുന്നു അതായത് Equipment ബാങ്കിൽ സംഭവിക്കുന്നു 3 ബി യിൽ മറ്റൊരുദാഹരണം ഉണ്ട് Debtors പണം കൈപ്പറ്റുക കമ്പനി ഉപഭോക്താക്കൾക്ക് കുറച്ച് സാധനങ്ങൾ വിറ്റു എന്നാൽ പണം ഇനിയും ശേഖരിക്കാൻ ആയിട്ടില്ല അവരെ കടക്കാർ എന്ന് വിളിക്കുന്നു ഇനി പണം കമ്പനി കൈ പറ്റിയാൽ കമ്പനിയുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും കടക്കാർ അഥവാ receivables കുറയുകയും ചെയ്യും ബാങ്കിൽ പ്ലസും കടക്കാരിൽ മൈനസ് സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ 3a 3b ഇടപാട് വിപരീതമായി തോന്നുന്നു കാരണം ഒന്ന് payment മറ്റൊന്ന് receipt ആണ് പക്ഷേ ഇവിടെ നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കുന്നത് നമ്മൾ Asset കൈമാറ്റമാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ LO എന്നിവയെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല A കുറയുന്നു അതുപോലെ കൂടുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇപ്പോൾ നമുക്ക് നാലിലേക്ക് പോകാം ഇപ്പോൾ 4a നോക്കൂ കമ്പനി വായ്പ തിരിച്ചടക്കുന്നു അതുപോലെ 4b എന്നത് കടക്കാരുടെ യോ വിതരണക്കാരുടെ യോ പണം നൽകുന്നതാണ് കമ്പനി ബാങ്ക് വായ്പ തിരിച്ചടച്ചാൽ എന്താണ് ഫലം ബാങ്ക് ബാലൻസ് കുറയും അതുപോലെ ബാങ്ക് വായ്പയും കുറയും എൻട്രി 2 ഷോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻട്രി 2 ൻറെ നേർവിപരീതമാണ് ഇത് അവിടെ പ്ലസും ഇവിടെ മൈനസ് ആണിത് അടുത്തതായി 4b എന്താണ് 4b 4b കടക്കാരുടെ പണം നൽകുന്നതാണ് അതായത് നമ്മൾ ചില വസ്തുക്കൾ വാങ്ങിയിരുന്നു അതിൻറെ പണം നമ്മൾ അവർക്ക് നൽകുകയാണ് അതിനാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയുകയും അതുപോലെ Creditors കുറയുന്നു മൈനസ് ബാങ്ക് മൈനസ് Creditors O മാറ്റം ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ കോമേഴ്സ് പഠിച്ചവർക്ക് ഇതെല്ലാം വളരെ എളുപ്പമുള്ള എൻട്രികളാണ് എന്നാൽ ആദ്യമായി ഇത് ചെയ്യുന്നവർ ദയവായി അവ ശ്രദ്ധാപൂർവ്വം നോക്കുക ഈ എൻട്രൻസ് തന്നെ ഒരുപാട് തവണ ചെറിയ മാറ്റങ്ങളോടെ വരുവാൻ സാധ്യതയുണ്ട് പക്ഷേ അടിസ്ഥാനം അതേപടി തുടരുന്നു അതിനാൽ ലളിതമായ ഈ entries പഠിച്ചാൽ മറ്റ് എൻട്രികൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അഞ്ചാമത്തെ എൻട്രിയിലേക്ക് പോകാം കമ്പനി ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുന്നു ഇപ്പോൾ ഇതെങ്ങനെ പ്രതിഫലിക്കും ലാഭവിഹിതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു ലാഭവിഹിതം എന്നാൽ കമ്പനി ലാഭം നേടുന്നു ഇപ്പോൾ കമ്പനി ഈ ലാഭം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്നു അതിനെയാണ് Dividend എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സൈക്കിളിനെ പറ്റി പറഞ്ഞത് ഓർക്കുന്നു എങ്കിൽ ബിസിനസ് സൈക്കിൾ നിങ്ങളുടെ വരുമാനം മൈനസ് ചെലവ് ചെയ്താൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും ഈ ലാഭം ഉടമകൾക്ക് നൽകപ്പെടും അല്ലെങ്കിൽ തിരികെ കമ്പനിയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുകയോ ചെയ്യും ഇപ്പോൾ നമ്മൾ ലാഭം ഓഹരി ഉടമകൾക്ക് നൽകി എന്ന് കരുതുക അപ്പോൾ എൻട്രി എന്തായിരിക്കും നമ്മൾ പണം അടയ്ക്കുന്നു അതിനാൽ ബാങ്ക് ബാലൻസ് കുറയും മറ്റെന്താണ് മാറുക Asset മാറുമോ അതെ ബാങ്കിൽ മാറ്റം വരുന്നതിനാൽ മാറും എന്നാൽ മറ്റൊരു Asset മാറുന്നില്ല liability മാറുന്നുണ്ടോ ഇല്ല പക്ഷേ O അതായത് Owner's fund അതിൽ Reserve ഉണ്ട് അതിൽ കുറവ് സംഭവിക്കും അതിനാൽ AO എന്നിവയിൽ കുറവ് സംഭവിക്കും അല്ലെങ്കിൽ Bank അതുപോലെ Reserve എന്നിവയിൽ കുറവ് സംഭവിച്ചു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവയെല്ലാം ലളിതമായ ഇടപാടുകളാണ് ഇതുപോലെ നൂറുകണക്കിന് ഇടപാടുകൾ എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനം മനസ്സിലാക്കിയാൽ മറ്റു ഇടപാടുകളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാം അതിനാൽ Balance sheet നെ പറ്റിയുള്ള പഠനം നമ്മൾ ഈ സെഷൻ ഓടുകൂടി അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ Profit loss ac പറ്റിയുള്ള പഠനം ആരംഭിക്കാം